ഇന്നു നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റ്വെയെർ പ്രോജക്ട് മാനേജ്മെന്റിന്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ ആണ് ഞാൻ ഡോക്ടർ ദുർഗ്ഗ പ്രസാദ് മോഹപാത്ര NIT റൂർകേള കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ പ്രൊഫസ്സർ ആണ് അപ്പോൾ ഇന്നത്തെ വിഷയം പ്രോജക്ട് മൂല്യനിർണയവും പ്രോഗ്രാം മാനേജ്മെന്റും ആണ് അപ്പോൾ ഇന്നത്തെ ആശയം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോജക്ടിന്റെ ബിസിനസ്സ് കേസ് ആണ് പ്രോജക്ട് പോർട്ഫോളിയോ മാനേജ്മെന്റ് കൂടാതെ പ്രോജക്ട് മൂല്യനിർണയവും അപ്പോൾ ബിസിനസ്സ് കേസ് എന്താണെന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം സാധാരണയായി ബിസിനസ്സ് കേസ് എന്നു സൂചിപ്പിക്കുന്നത് സാധ്യത പഠനത്തെ ആണ് സാധ്യത പഠനത്തിന്റെ പ്രധാന ഫോക്കസ് എന്നത് അത് സാമ്പത്തികപരമായിട്ടും സാങ്കേതികപരമായിട്ടും ഒരു സോഫ്റ്റ്വെയറിനെ വികസിപ്പിക്കുവാൻ സാധ്യത ഉണ്ടോ എന്ന് നിർണയിക്കുന്നതാണ് പ്രോജക്ട് തുടങ്ങുത്തിനായി അതൊരു ന്യായീകരണം നൽകുന്നുണ്ട് ഇതിനുപുറമെ പ്രോജക്ടിന്റെ ആനുകൂല്യങ്ങൾ അത് കവിയുന്നു അത് വികസന ചിലവുകളും നടത്തിപ്പ് ചിലവുകളും കൂടാതെ പ്രവർത്തന ചിലവുകളും കടത്തിവെട്ടുന്നു എന്നും കാണിക്കുന്നു ബിസിനസിലെ അപകടസാധ്യതകൾ കൂടി അപ്പോൾ കണക്കിൽ എടുക്കണം അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് പലതരം അപകട സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സ് അപകട സാധ്യതകൾ എന്തൊക്കെ ആണ് അങ്ങനെ പ്രോജക്ട് സാധ്യത ഉള്ളതാണോ അല്ലയോ എന്ന് അറിയാൻ അത് നമ്മളെ സഹായിക്കും ഇനി വ്യത്യസ്ഥതരതിലുള്ള സാധ്യത പഠനത്തെ കുറിച്ച് നമുക്കു നോക്കാം അപ്പോൾ മൂന്ന് വ്യത്യസ്ത തരം സാധ്യത പഠനങ്ങൾ ആണ് ഉള്ളത് ഒന്ന് സാങ്കേതിക സാധ്യത അടുത്തത് സാമ്പത്തിക സാധ്യത മറ്റൊന്ന് പ്രവർത്തന സാധ്യത സാങ്കേതിക സാധ്യതയിൽ നമുക്ക് ലഭ്യമായ നിലവിലുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് സോഫ്റ്റ്വെയറിനെ വികസിപ്പിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ആവശ്യമുണ്ടോ അതു നമുക്കിടയിൽ ലഭ്യമാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കണം സാങ്കേതിക സാധ്യത പഠനം കഴിഞ്ഞാൽ നമുക്ക് പരിഗണിക്കാൻ ഉള്ളത് സാമ്പത്തിക സാധ്യത ആണ് സാമ്പത്തിക സാധ്യത എന്നാൽ നിർദേശിച്ച പ്രോജക്ട് നടപ്പിലാക്കിയാൽ കിട്ടുന്ന ലാഭവും മൂല്യവും ഉറപ്പു വരുത്തുക എന്നതാണ് അത് കോസ്റ്റിനെ കടത്തിവെട്ടുന്നു അതിന്റെ ആനുകൂല്യങ്ങൾ പ്രോജക്ട് വികസിപ്പിക്കാൻ എടുക്കുന്ന കോസ്റ്റിനേകാൾ വളരെ വളരെ ഉയർന്ന വലുപ്പമുള്ളതായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുവുള്ളു ആ പ്രോജക്ട് സാമ്പത്തിക സാധ്യത ഉള്ളതാണെന്ന് ഇല്ലെങ്കിൽ ആ പ്രോജക്ട് സാമ്പത്തികമായി സാധ്യത ഇല്ല എന്നും അങ്ങനെ ആ പ്രോജക്ട് നമ്മൾ ഏറ്റെടുക്കുവാൻ പാടുള്ളതല്ല അടുത്തതായി പ്രവർത്തന സാധ്യതയെ കുറിച്ച നോക്കാം അപ്പോൾ ഈ പ്രോജക്ട് സാങ്കേതികമായും സാമ്പത്തികപരമായും പ്രായോഗികമാണ് എന്നു നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രവർത്തന സാധ്യതയിലേക് പോകാം പ്രവർത്തന സാധ്യത എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോജക്ട് വികസിപിക്കുകയാണെങ്കിൽ ഉപയോക്താക്കൾ അതായത് അന്തിമ ഉപയോക്താക്കൾ എത്രത്തോളം അതിനെ അംഗീകരിക്കും എന്നതാണ് അന്തിമ ഉപയോക്താക്കൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷം നൽകും കൂടാതെ അവർ അത് സന്തോഷത്തോടെ ഉപയോഗിക്കുകയും ചെയ്യും എങ്കിൽ നമുക്കു പറയാം അത് പ്രവർത്തിപരമായി പ്രയോഗികമാണ് അല്ലെങ്കിൽ പ്രായോഗികമല്ല എന്ന് കാരണം ഒരു പുതിയ പ്രോജക്ട് ഓട്ടോമേഷൻ സിസ്റ്റം ആയിരിക്കാം നമ്മൾ അത് വികസിപ്പിക്കുന്നു കൂടാതെ മുൻപു പ്രോജക്ട് സ്വമേധയാൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ആളുകൾ സന്തോഷത്തിൽ ആയിരിന്നു ഇനി അവരുടെ സിസ്റ്റം ഓട്ടോമറ്റെഡ് ആക്കിയാൽ അവരുടെ ജോലി നഷ്ടപ്പെടുമോയെന്നു അവർക്കു ഭയം കാണും അതിനാൽ അവർ അത് ചെറുത്തുനിൽക്കും ആ സാഹചര്യത്തിൽ നമുക്കു പറയാം പ്രോജക്ട് പ്രവർത്തന പരമായും സാധ്യത ഉള്ളതാണ് ഒരു പ്രോജക്ട് എടുക്കുകയാണേൽ അത് സാങ്കേതികമായും സാമ്പത്തികമായും പ്രവർത്തന പരമായും വികസിപ്പിക്കാൻ സാധ്യത ഉള്ളതാണോ എന്നു നോക്കണം ഇതല്ല ഇതിൽ ഏതെങ്കിലും സാധ്യത തൃപ്തികരമല്ലെങ്കിൽ ആ പ്രോജക്ട് ഏറ്റെടുകരുത് ഇനി അടുത്തതായി ബിസിനസ്സ് കേസിലെ അഥവാ സാദ്ധ്യത പഠനത്തിലെ ഉള്ളടക്കം എന്തെല്ലാം എന്നു നമുക്കു നോക്കാം ഇനി പറയാൻ പോകുന്നതാണ് ബിസിനസ്സ് കേസിലെ ഉള്ളടക്കം ആദ്യമായി നിർദേശിച്ച പ്രോജക്ടിന്റെ ആമുഖമോ പശ്ചാതലമോ എഴുതണം അടുത്തത് നിർദേശിച്ച പ്രോജക്ടിന്റെ വിശദാംശങ്ങൾ എഴുതണം ഇനി എന്താണ് മാർക്കറ്റ് അഥവാ വിപണി ഈ പ്രോജക്ട് ലക്ഷ്യമിടുന്നത് ഏത് വിപണിയിൽ ആണ് അതിനെ കുറിച്ച് അല്പം വിശദീകരിക്കാം കൂടാതെ പ്രോജക്ട് വികസിപിക്കുവാനായി ആവശ്യമുള്ള സംഘടനാപരവും പ്രവർത്തന പരവുമായ അടിസ്ഥാന സൌകര്യങ്ങൾ എന്തെല്ലാം എന്നും വിശദീകരിക്കണം സാധ്യത പഠനത്തിൽ രണ്ടു പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉള്ളതെന്നു ഞാൻ നേരത്തെ നിങ്ങളോടു പറഞ്ഞു ആനുകൂല്യവും ചിലവും ചിലവ് ആനുകൂല്യത്തെ കടത്തിവെട്ടുന്നു എന്നു നമ്മൾ ഉറപ്പു വരുത്തണം അടുത്ത ആശയം ആനുകൂല്യങ്ങൾ ആണ് ഇവയെക്കുറിച്ചെല്ലാം ചുരുക്കത്തിൽ നമുക്ക് നോക്കാം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ബിസിനസ്സ് കേസിൽ ആദ്യം കുറച്ച് ആമുഖമോ പശ്ചാത്തലമോ ഉണ്ടായിരിക്കണം അതിനാൽ ഈ ആമുഖം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരത്തെ വിവരിക്കും അതിനാൽ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസരമാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് അത് കുറച്ച് പശ്ചാത്തലമായിരിക്കണം അല്ലെങ്കിൽ ആമുഖം ആദ്യം വിവരിക്കേണ്ടതാണ് തുടർന്ന് നിർദ്ദിഷ്ട പദ്ധതിയെക്കുറിച്ച് ഇവിടെ പ്രോജക്റ്റ് സ്കോപ്പിന്റെ എല്ലാ രൂപരേഖകളും നിർദ്ദിഷ്ട പദ്ധതിയുടെ വ്യാപ്തി പ്രോജക്റ്റ് വ്യാപ്തിയെക്കുറിച്ചുള്ള എല്ലാ രൂപരേഖകളും വിവരിക്കേണ്ടതാണ് അടുത്തത് ഓരോ വിപണിയും അതിനാൽ ഇവിടെ ഒരു പുതിയ ഉൽപ്പന്നം വികസിപ്പിക്കുക എന്നതാണ് പദ്ധതി ഒരു പുതിയ ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിനായി നിങ്ങൾ ഒരു പ്രോജക്റ്റ് വികസിപ്പിക്കാൻ പദ്ധതിയിടുകയാണെന്ന് കരുതുക ഉദാഹരണത്തിന് ഒരു പുതിയ കമ്പ്യൂട്ടർ ഗെയിം രൂപകൽപ്പന ചെയ്യുന്നതിനായി ഒരു പ്രോജക്റ്റ് വികസിപ്പിക്കുക എന്ന് കരുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ കമ്പ്യൂട്ടർ ഗെയിം നിങ്ങളുടെ സോഫ്റ്റ്വെയർ വാങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഉൽപ്പന്നത്തിനായുള്ള ലഘുവായ ഡിമാൻഡ് വിലയിരുത്തേണ്ടതുണ്ട് ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ കാര്യമെന്താണ് അതിനാൽ അതുകൊണ്ടാണ് നിങ്ങൾ വിപണി ലക്ഷ്യമിടുന്നത് എന്താണ് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വിപണിയിൽ എത്രത്തോളം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വിപണിയിൽ ഈ ഉൽപ്പന്നത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറച്ച് ചർച്ചചെയ്യേണ്ടത് തുടർന്ന് ഉള്ളടക്കത്തിൽ അടുത്തതായി ഓർഗനൈസേഷണലും പ്രവർത്തന അടിസ്ഥാനസൌകര്യങ്ങളെ കുറിച്ചുമാണ് ഇവിടെ ഓർഗനൈസേഷൻ എങ്ങനെ മാറ്റേണ്ടതുണ്ട് നിങ്ങൾ ഈ പ്രത്യേക പ്രോജക്റ്റ് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കാം ഓർഗനൈസേഷൻ ഘടനയിൽ പ്രവർത്തന ഘടനയിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകുമോ എന്നത് അത് സംഭവിക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടാണ് ഒരു പുതിയ ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷൻ അവതരിപ്പിക്കുന്നിടത്ത് ഇത് പ്രധാനമായിരിക്കുന്നത് അപ്പോൾ ഇതൊരു മാനുവൽ ആണെന്ന് കരുതുക നിങ്ങൾ സ്വയമേ പോകുന്നു അവിടെ ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ പ്രവർത്തന ഘടനയെ വളരെയധികം ബാധിക്കില്ല പക്ഷെ മുമ്പുണ്ടായിരുന്ന ഒരു സമ്പൂർണ്ണ പുതിയ ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങൾ പൂർണ്ണമായും വികസിപ്പിക്കാൻ പോകുകയാണെങ്കിൽ അത് പൂർണ്ണമായും മാനുവലായിരുന്നു ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഓർഗനൈസേഷണൽ ഘടനയിൽ അല്ലെങ്കിൽ പ്രവർത്തന ഇൻഫ്രാസ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം അതിനാൽ ഒരു മാറ്റം ഉണ്ടായാൽ എന്തുതരം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ പ്രോജക്റ്റ് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ സംഘടനാ പ്രവർത്തന അടിസ്ഥാന സൌകര്യങ്ങളിൽ എന്തുതരം മാറ്റങ്ങൾ ഉണ്ടാകും അതിനാൽ നമ്മൾ ചർച്ച ചെയ്യണം രണ്ട് പ്രധാന ഘടകങ്ങൾ ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ബിസിനസ്സ് കേസിലെ രണ്ട് പ്രധാന ഉള്ളടക്കങ്ങൾ ആനുകൂല്യങ്ങളും ചെലവുകളും ആണ് അതിനാൽ സാധാരണയായി ഇത് സാമ്പത്തിക പദങ്ങളിൽ പ്രകടിപ്പിക്കണം കഴിയുന്നത്ര ആനുകൂല്യങ്ങൾ സാമ്പത്തിക നിബന്ധനകളിൽ പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം സാമ്പത്തിക ആനുകൂല്യത്തിന്റെ കാര്യത്തിൽ ചില ആനുകൂല്യങ്ങൾ പ്രകടിപ്പിക്കാനിടയില്ലെന്ന് നമ്മൾക്കറിയാം സാമ്പത്തിക പദാവലികൾ മോണിറ്ററിംഗ് നിബന്ധനകളിലോ സാമ്പത്തിക നിബന്ധനകളിലോ പ്രകടിപ്പിക്കാവുന്നതും പ്രകടിപ്പിക്കാൻ കഴിയാത്തതുമായ വ്യത്യസ്ത തരം ആനുകൂല്യങ്ങളും ചെലവും നമ്മൾ കാണും അവ അടുത്ത ക്ലാസ്സിൽ നോക്കാം അവസാനം ഇത് വിലയിരുത്തേണ്ടത് ക്ലയന്റാണ് കാരണം ആദ്യം സാമ്പത്തിക നിർദ്ദിഷ്ട പ്രോജക്റ്റിൽ നിന്ന് എന്ത് നേട്ടങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ കാണണം അതിനാൽ അവസാനം ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയ ശേഷം അവർ എത്രമാത്രം ചെലവഴിച്ചുവെന്ന് ക്ലയന്റ് ഇത് വിലയിരുത്തും അവർ എന്ത് വില കൊടുത്തു അവർ എത്ര തുക നൽകി അവർക്ക് എത്ര പ്രയോജനം ലഭിക്കുന്നു ആനുകൂല്യം വിലയേക്കാൾ കൂടുതലല്ലെങ്കിൽ തീർച്ചയായും അത് അവർക്ക് നഷ്ടമായിരിക്കും മാത്രമല്ല ഈ നിർദ്ദിഷ്ട പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് അവർ പോകില്ല അതിനാൽത്തന്നെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സാമ്പത്തിക നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ബിസിനസ്സ് കേസിലെ പണപരമായ അല്ലെങ്കിൽ ഈ പ്രായോഗിക പഠന റിപ്പോർട്ടിൽ ആനുകൂല്യങ്ങൾ പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം അടുത്തത് അടിസ്ഥാന നടപ്പാക്കൽ പദ്ധതിയെക്കുറിചുള്ള രൂപരേഖയാണ് ഇവിടെ പ്രോജക്റ്റ് എങ്ങനെ നടപ്പാക്കാൻ പോകുന്നു ചർച്ച ചെയ്യേണ്ട പ്രോജക്റ്റ് നിങ്ങൾ എങ്ങനെ നടപ്പാക്കും അതിനാൽ ഒരു പ്രോജക്റ്റിന് കാരണമായേക്കാവുന്ന ഒരു ഓർഗനൈസേഷനെ തടസ്സപ്പെടുത്തുന്നത് ഇത് പരിഗണിക്കണം അതിനാൽ നിങ്ങൾ പുതിയ പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ സാധാരണ പ്രവർത്തനത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എന്തുചെയ്യും അതിനാൽ അതും ഈ അടിസ്ഥാന രൂപരേഖ നടപ്പാക്കൽ പദ്ധതിയിൽ എഴുതണം കൂടാതെ മറ്റു പ്രധാനപെട്ട ഉള്ളടക്കം വിവരിക്കേണ്ടത് ചിലവുകളെ കുറിച്ചാണ് ഇത് നടപ്പാക്കുന്നതിന് ഇവിടെ നടപ്പാക്കൽ പദ്ധതി വിവരങ്ങൾ നൽകും വ്യത്യസ്ത തരം ചിലവുകൾ എന്തൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ വ്യത്യസ്ത തരം ചെലവുകൾ എന്തായിരിക്കാം എന്ന് നമ്മൾ ചർച്ച ചെയ്യും ഈ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് ക്ലയന്റിന് അന്തിമ ഉപയോക്താവിന് എത്ര ചിലവ് വരും അതിനാൽ ഈ ചെലവ് സ്ഥാപിക്കുന്നതിന് നടപ്പാക്കൽ പദ്ധതി വിവരങ്ങൾ നൽകണം അടുത്ത ഘടകം സാമ്പത്തിക വിശകലനമാണ് ഈ സാമ്പത്തിക വിശകലനം പദ്ധതിയുടെ മൂല്യം സ്ഥാപിക്കുന്നതിന് ചെലവും ആനുകൂല്യ ഡാറ്റയും സംയോജിപ്പിക്കുന്നു പദ്ധതി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പദ്ധതിയുടെ മൂല്യം എന്താണ് അതിനാൽ ഇവിടെ ഈ ഉള്ളടക്ക സാമ്പത്തിക വിശകലനത്തിൽ ഇത് സംയോജിപ്പിക്കും പ്രോജക്റ്റിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് സ്ഥാപിക്കുന്നതിന് ഈ വിഭാഗം വിവിധ വിലയും ആനുകൂല്യ ഡാറ്റയും സംയോജിപ്പിക്കും അന്തിമ ഉപയോക്താവിന് പ്രോജക്റ്റ് അംഗീകരിക്കാൻ കഴിയുമോ ചെലവും ആനുകൂല്യങ്ങളും താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ല ഡവലപ്പർക്ക് പദ്ധതി സ്വീകരിക്കാൻ കഴിയുക അതിനാൽ ഈ വിശകലനം പാലിക്കും ഒരു ബിസിനസ് കേസിന്റെ അടുത്ത പ്രധാന ഘടകം അപകടസാധ്യതകളാണ് അതിനാൽ അഭികാമ്യമല്ലാത്ത ഒന്നാണെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ റിസ്ക് ചെയ്യുക അഭികാമ്യമല്ലാത്ത എന്തെങ്കിലുമുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റിലെ രണ്ട് പ്രധാന തരത്തിലുള്ള അപകടസാധ്യതകൾ രണ്ട് തരത്തിലുള്ള അപകടസാധ്യതകൾ കണ്ടെത്തും അതിനാൽ ഈ രണ്ട് തരത്തിലുള്ള അപകടസാധ്യതകൾ അടങ്ങിയിരിക്കണം ഈ രണ്ട് തരത്തിലുള്ള അപകടസാധ്യത ഈ പ്രായോഗിക പഠന റിപ്പോർട്ടിലോ ഒരു ബിസിനസ്സ് കേസിലോ അടങ്ങിയിരിക്കണം അതിനാൽ ഒന്ന് ബിസിനസ്സ് അപകടസാധ്യതകളാണ് മറ്റൊന്ന് പ്രോജക്റ്റ് അപകടസാധ്യതകളാണ് അതിനാൽ പ്രോജക്റ്റ് റിസ്കിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് പ്രോജക്റ്റ് എക്സിക്യൂഷന് ഭീഷണിയുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകളാണ് പ്രോജക്റ്റ് റിസ്ക്കുകൾ വിജയകരമായ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിനോ അല്ലെങ്കിൽ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കുന്നതിനോ എന്തെല്ലാം ഭീഷണികൾ ഉണ്ടായേക്കാം അതിനാൽ ഇവ പ്രോജക്റ്റ് റിസ്ക്കുകൾ എന്നറിയപ്പെടുന്നു പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണത്തിനോ നടപ്പാക്കലിനോ ഉള്ള ഭീഷണിയുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം ബിസിനസ് അപകടസാധ്യതകൾ ഡെലിവർ ചെയ്ത പ്രോജക്റ്റിന്റെ നേട്ടങ്ങൾക്ക് ഭീഷണിയാകുന്ന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ പ്രോജക്റ്റ് ഡെലിവർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആനുകൂല്യങ്ങൾ ലഭിക്കും ഡെലിവർ ചെയ്ത പ്രോജക്റ്റിന്റെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഏതെല്ലാം ഘടകങ്ങൾ ഭീഷണിപ്പെടുത്തും അതിനാൽ ഈ ഘടകങ്ങളെ ഒരു ബിസിനസ് റിസ്ക് എന്ന് വിളിക്കും ഈ ബിസിനസ്സ് കേസിലോ സാധ്യതാ പഠനത്തിലോ നിങ്ങളുടെ ശ്രദ്ധ വ്യത്യസ്ത ബിസിനസ്സ് അപകടസാധ്യതകളിലായിരിക്കും അതിനാൽ സെഷന്റെ അവസാനത്തിൽ ബിസിനസ്സ് അപകടസാധ്യതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും മാനേജുമെന്റ് പദ്ധതിയിലെ അവസാന ഉള്ളടക്കം അല്ലെങ്കിൽ അവസാന ഘടകം ഓർഗനൈസേഷന്റെ സുഗമമായ നടത്തിപ്പിനായി വിശദമായ പദ്ധതി ആസൂത്രണം ചെയ്യണം നിങ്ങൾ പരിഗണിക്കേണ്ട വ്യത്യസ്ത പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്താണ് വ്യത്യസ്ത നാഴികക്കല്ലുകൾ തുടങ്ങിയവ അതിനാൽ ഈ വിഭാഗത്തിൽ എഴുതേണ്ട പ്രോജക്റ്റ് വികസിപ്പിക്കുമ്പോൾ ഈ ഓർഗനൈസേഷന്റെ സുഗമമായ നടത്തിപ്പിനായുള്ള വിശദമായ പദ്ധതി ഒരു ബിസിനസ് കേസിന്റെ വിവിധ ഉള്ളടക്കങ്ങൾ ഇവയാണ് അതിനാൽ ഈ ബിസിനസ്സ് കേസിലോ പ്രായോഗിക പഠന റിപ്പോർട്ടിലോ ഈ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ അടങ്ങിയിരിക്കണം ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ മറ്റൊരു പ്രധാന വശം നമ്മൾ കാണും അത് നിങ്ങളുടെ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റാണ് അതിനാൽ ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് എന്താണ് നൽകുന്നതെന്ന് ആദ്യം നോക്കാം ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഒരു ഓർഗനൈസേഷൻ ഏറ്റെടുക്കുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു അവലോകനം ഇത് നൽകുന്നു ഒരു ഓർഗനൈസേഷൻ ഒരു പ്രോജക്റ്റ് മാത്രമേ വികസിപ്പിക്കുകയുള്ളൂ അത് ഏറ്റെടുക്കാം ഒന്നിലധികം പ്രോജക്ടുകൾ വികസിപ്പിച്ചേക്കാം അതിനാൽ ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു അവലോകനം നൽകും അതിനാൽ ചില പ്രോജക്ടുകൾ അക്കാദമിക് അനുബന്ധ പ്രോജക്ടുകളായിരിക്കാം ചില പ്രോജക്ടുകൾ ആരോഗ്യസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകളായിരിക്കാം ഇവിടെ ചില പ്രോജക്ടുകൾ ബിസിനസ് അധിഷ്ഠിത പ്രോജക്ടുകളായിരിക്കാം അല്ലെങ്കിൽ ചില പ്രോജക്ടുകൾ വ്യവസായത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രോജക്ടുകളായിരിക്കാം ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഓർഗനൈസേഷൻ ഏറ്റെടുക്കുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു അവലോകനം ഇത് നൽകും അതിനാൽ ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന് മുമ്പായി പ്രോജക്റ്റുകൾക്ക് രെസൌസെസ്സ് അനുവദിക്കുന്നതിന് മുൻഗണന നൽകും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇത് ഏത് പ്രോജക്റ്റ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ വളരെയധികം പ്രോജക്ടുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ റിസോഴ്സ് പരിമിതമാണ് അതിനാൽ റിസോഴ്സ് എങ്ങനെ അനുവദിക്കും ഏത് പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റാണ് കൂടുതൽ പ്രധാനമെന്ന് പറയുക ആദ്യം ആ പ്രോജക്റ്റുകൾക്ക് കൂടുതൽ റിസോഴ്സ് നൽകണമെന്ന് പറയുക ഏത് പ്രോജക്റ്റിന് ലഭിക്കണം എന്നതിന് എങ്ങനെ മുൻഗണന നൽകണം ഏതെല്ലാം റിസോഴ്സ് എപ്പോൾ നൽകണം അതിനാൽ ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ മുൻഗണന വിവിധ പ്രോജക്ടുകൾക്ക് റിസോഴ്സ് അനുവദിക്കുന്നതിന് ഇത് മുൻഗണന നൽകും ഏതൊക്കെ പുതിയ പ്രോജക്ടുകൾ സ്വീകരിക്കണമെന്നും നിലവിലുള്ളവ ഉപേക്ഷിക്കണമെന്നും ഇത് തീരുമാനിക്കും സാധ്യമായ പഠനത്തിനുശേഷം ഈ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് കൂടുതൽ ലാഭം നൽകും എന്നും നോക്കണം അത് വികസിപ്പിക്കുന്നതിന് തീർച്ചയായും നാം അത് സ്വീകരിക്കണം പ്രവർത്തിക്കുന്ന ചില പ്രോജക്ടുകൾ അവ നഷ്ടപ്പെടുന്നതിന് പകരം ഓർഗനൈസേഷന് അത്രയധികം നേട്ടങ്ങൾ നൽകുന്നില്ലെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ പദ്ധതികളാണ് നമ്മൾക്ക് സംഭവിച്ച ഏതൊരു നഷ്ടവും സ്വീകരിക്കുന്ന പദ്ധതികൾ ഉപേക്ഷിക്കാൻ നടപടിയെടുക്കേണ്ടത് വികസിത സംഘടനയ്ക്ക് കൂടുതൽ നഷ്ടം വരുത്താൻ നമ്മൾ അനുവദിക്കരുത് നഷ്ടം നൽകുന്ന നിലവിലുള്ളവ നഷ്ടത്തിലാണ് അതിനാൽ അവ ഉപേക്ഷിക്കണം ഏത് പുതിയ പ്രോജക്ടുകൾ സ്വീകരിക്കണമെന്നും നിലവിലുള്ളവ ഉപേക്ഷിക്കണമെന്നും എങ്ങനെ തീരുമാനിക്കാം ഇതിനായി നമ്മൾ വീണ്ടും പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഉപയോഗിക്കണം ഏത് പ്രോജക്റ്റ് സ്വീകരിക്കണമെന്നും നിലവിലുള്ള പ്രോജക്റ്റ് ഉപേക്ഷിക്കണമെന്നും ഇത് തീരുമാനിക്കും പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ പ്രധാന ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ പ്രധാന ആശങ്കകൾ ഇവയാണ് ആദ്യത്തേത് പ്രോജക്റ്റുകൾക്കായുള്ള നിർദ്ദേശങ്ങൾ വിലയിരുത്തുകയാണ് പ്രോജക്റ്റ് നിർദ്ദേശങ്ങൾ വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് വന്നേക്കാം അതിനാൽ പ്രോജക്റ്റ് നിർദ്ദേശങ്ങൾ എങ്ങനെ വിലയിരുത്താം നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്ന എല്ലാ പാരാമീറ്ററുകളും അതിനാൽ പദ്ധതികൾക്കുള്ള നിർദേശങ്ങൾ വിലയിരുത്തേണ്ട ആദ്യത്തെ പ്രധാന ആശങ്ക ഇതാണ് അപ്പോൾ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട അപകടസാധ്യത നമ്മൾ വിലയിരുത്തണം രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രോജക്ടുകൾ ഉണ്ടെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സ് അപകടസാധ്യതകളും പ്രോജക്റ്റ് അപകടസാധ്യതകളും ഈ അപകടസാധ്യതയുടെ ആഘാതം എന്തായിരിക്കുമെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ പദ്ധതിയെ അത് എത്രമാത്രം ബാധിക്കും സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തുന്നു പദ്ധതികളുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ വിലയിരുത്തുന്നു ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം പ്രോജക്റ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ പ്രോജക്റ്റുകൾക്കിടയിൽ എങ്ങനെ റിസോഴ്സ് പങ്കിടാമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഒരു പ്രധാന ഘടകമായ ഏത് പ്രോജക്റ്റിന് ഏത് ഉറവിടമാണ് അനുവദിക്കേണ്ടതെന്ന് എപ്പോൾ തീരുമാനിക്കാമെന്ന് റിസോഴ്സ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഏത് പ്രോജക്റ്റിന് എപ്പോൾ ഏത് റിസോഴ്സ് നൽകുമെന്ന് തീരുമാനിക്കുകയാണ് പ്രോജക്ട് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പ്രോജക്റ്റുകൾ തമ്മിലുള്ള ആശ്രിതത്വം കണക്കിലെടുക്കുമ്പോൾ ചില പ്രോജക്റ്റുകൾ ഉണ്ട് ആശ്രിതരുണ്ട് അതിനർത്ഥം പ്രോജക്റ്റ് എ പ്രോജക്റ്റ് ബിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കരുതുക അതിനർത്ഥം പ്രോജക്റ്റ് ബി പൂർത്തിയായില്ലെങ്കിൽ ഒരുപക്ഷേ പ്രോജക്റ്റ് എ നമ്മൾ ആരംഭിക്കാനിടയില്ല അതുകൊണ്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിന് പ്രോജക്റ്റുകൾ തമ്മിലുള്ള ആശ്രിതത്വം നമ്മൾ കണക്കിലെടുക്കണം ഏത് പ്രോജക്റ്റ് മറ്റ് പ്രോജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു അതനുസരിച്ച് നമ്മൾക്ക് റിസോഴ്സസ് നിയോഗിക്കാൻ കഴിയും അതിലൂടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതാണ് അതുവഴി അതിനെ ആശ്രയിക്കുന്ന മറ്റ് പ്രോജക്റ്റ് ആരംഭിക്കാൻ കഴിയും പ്രോജക്റ്റുകൾ തമ്മിലുള്ള തനിപ്പകർപ്പ് നീക്കംചെയ്യൽ അതിനാൽ നിങ്ങൾക്ക് സമാനമായ പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന സമാന പ്രോജക്റ്റുകളും ചില ഘടകങ്ങളും അനാവശ്യമാണെങ്കിൽ അവ തനിപ്പകർപ്പാണ് അതിനാൽ ഇത് പരിശ്രമത്തിന്റെയും റിസോഴ്സിന്റ്റെയും അനാവശ്യമായ ഉപയോഗം മുതലായവ സമയം പാഴാക്കുനതാണ് അതിനാൽ പ്രോജക്റ്റുകൾ തമ്മിലുള്ള തനിപ്പകർപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവ നീക്കംചെയ്യേണ്ടതുണ്ട് ഇത് പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ പ്രധാന ആശങ്കകളിൽ ഒന്നാണ് ആവശ്യമായ സംഭവവികാസങ്ങൾ അശ്രദ്ധമായി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ മറ്റൊരു പ്രധാന ആശങ്ക ആവശ്യമായ സംഭവവികാസങ്ങൾ അശ്രദ്ധമായി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ ചില വികസനം അതിനാൽ എങ്ങനെയോ അത് നഷ്ടപ്പെട്ടു അതെ ആവശ്യമായ സംഭവവികാസങ്ങളില്ല പ്രധാനപ്പെട്ട കാര്യങ്ങളില്ലെന്ന് ഈ കാര്യം ഉറപ്പാക്കണം അവ അശ്രദ്ധമായി നഷ്ടപ്പെട്ടു ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഉപയോഗിച്ചും ഇത് ഉറപ്പാക്കാനാകും ഇനി പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർവചനം മറ്റൊന്ന് പ്രോജക്ട് പോർട്ട്ഫോളിയോ മാനേജുമെന്റും തുടർന്ന് പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷനുമാണ് ആദ്യം പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർവചനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ലക്ഷ്യം ഒരു ഓർഗനൈസേഷനുള്ളിലെ എല്ലാ പ്രോജക്റ്റുകളുടെയും കേന്ദ്ര റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം അതിനാൽ ഒരു ഓർഗനൈസേഷൻ ഉപയോഗിച്ച് നിരവധി റെക്കോർഡുകൾ ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ ബന്ധപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളുടെയും കേന്ദ്ര റെക്കോർഡ് എങ്ങനെ സൃഷ്ടിക്കാം അതിനാൽ തന്നെ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർവചനത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർവചനം എങ്ങനെ നിർവചിക്കാം എല്ലാ പ്രോജക്റ്റുകളും ശേഖരത്തിൽ ഉണ്ടോ അതോ ഐസിടി പ്രോജക്ടുകൾ പോലുള്ള ഒരു പ്രത്യേക വിഭാഗം പ്രോജക്ടുകൾ മാത്രമാണോ എന്നും നമ്മൾ തീരുമാനിക്കണം പുതിയ ഉൽപ്പന്ന വികസന പദ്ധതികളും പുതുക്കൽ പ്രോജക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു പ്രോജക്റ്റ് പുതുതായി വികസിപ്പിക്കുന്നതും അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നതും തമ്മിൽ മതിയായ വ്യത്യാസമുണ്ടോയെന്ന് നോക്കുക നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട് കാരണം രണ്ട് പ്രോജക്റ്റുകൾക്കും ആവശ്യമായ റിസോഴ്സസ് പുതിയ ഉൽപ്പന്ന വികസനവും പുതുക്കലും വ്യത്യസ്തമായിരിക്കും ഒരു പുതിയ ഉൽപ്പന്ന വികസനം വികസിപ്പിക്കുന്നതിനും പ്രോജക്റ്റുകൾ പുതുക്കുന്നതിനും ആവശ്യമായ സമയം ആവശ്യമായ പരിശ്രമം വ്യത്യസ്തമായിരിക്കും അതിനാൽ പുതിയ ഉൽപ്പന്ന വികസനവും പദ്ധതിയുടെ പുതുക്കലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർവചനം ലക്ഷ്യമിടുന്നത് അതിന്റെ ലക്ഷ്യമാണ് തുടർന്ന് പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് നമ്മൾ കാണും പ്രോജക്റ്റുകളുടെ യഥാർത്ഥ വിലയും പ്രകടനവും റെക്കോർഡുചെയ്യാനും സഹായിക്കാനും ഇവിടെ നാം കാണേണ്ടതുണ്ട് പ്രോജക്റ്റ് എടുക്കുന്ന യഥാർത്ഥ ചെലവ് എന്താണ് പ്രകടനം എന്താണ് ഏത് തരത്തിലുള്ള പ്രകടനമാണ് പ്രോജക്റ്റ് ഒഴിവാക്കുന്നത് അതിനാൽ പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഉപയോഗിച്ച് അവ റെക്കോർഡുചെയ്യാനും വിലയിരുത്താനും കഴിയും പദ്ധതികളുടെ യഥാർത്ഥ ചെലവ് യഥാർത്ഥ പ്രകടനം എന്നിവ രേഖപ്പെടുത്തുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം അവ വികസിപ്പിക്കുകയും പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷനിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മുകളിൽ കാണിച്ച വിവരങ്ങൾ ഇവിടെ കാണുകയും ചെയ്യും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നു ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ നിർവചനത്തിൽ നമ്മൾ റെക്കോർഡ് സൃഷ്ടിക്കുകയാണെന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നും കാണും അതിനാൽ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷനിൽ മുമ്പ് ശേഖരിച്ച വിവരങ്ങൾ പ്രോജക്റ്റുകളുടെ മികച്ച ബാലൻസ് നേടാൻ അവ ഉപയോഗിക്കാം ചില പ്രോജക്റ്റുകൾ കാണുന്നത് പോലെ വ്യത്യസ്ത പ്രോജക്ടുകൾ എങ്ങനെ സന്തുലിതമാക്കാം എന്നത് വളരെ അപകടസാധ്യതയുള്ളവയാണ് പക്ഷേ അവ വളരെ മൂല്യവത്തായവയാണ് അവ മൂല്യവത്തായ ബാലൻസായിരിക്കും കാരണം അവർ കൂടുതൽ ലാഭം നൽകിയേക്കാമെന്നതിനാൽ ബിസിനസ്സോ പ്രോജക്റ്റുകളോ കൂടുതൽ അപകടസാധ്യതയുള്ളവയാണെന്ന് അവർക്കറിയാം മറുവശത്ത് അപകടസാധ്യത കുറഞ്ഞ ചില പ്രോജക്ടുകൾ ഉണ്ട് ഇത് വളരെ അപകടസാധ്യതയുള്ള പ്രോജക്ടുകളാണ് പക്ഷേ അവയുടെ സ്വഭാവവും വളരെ കുറവാണ് അവ വളരെ വിലകുറഞ്ഞ പ്രോജക്ടുകളാണ് അതിനാൽ മികച്ച പ്രകടനം നേടുന്നതിന് ഈ വ്യത്യസ്ത തരം പ്രോജക്ടുകൾ നമ്മൾ സന്തുലിതമാക്കേണ്ടതുണ്ട് അപ്പോൾ വിവരങ്ങൾ നമ്മുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും നമുക്ക് അവ എങ്ങനെ സന്തുലിതമാക്കാം മേൽപ്പറഞ്ഞ ഘട്ടങ്ങളിൽ ശേഖരിച്ച രണ്ട് വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ അതിനാൽ മുകളിൽ ശേഖരിച്ച വിവരങ്ങൾ പ്രോജക്റ്റുകളുടെ മികച്ച ബാലൻസ് നേടാൻ സഹായിക്കും നമ്മൾ ഇതിനകം കണ്ടു ഉദാഹരണത്തിൽ ചില പ്രോജക്റ്റുകൾ വളരെ അപകടസാധ്യതയുള്ളതാകാമെന്ന് പക്ഷേ അവ വളരെ അപകടസാധ്യതയുള്ളതാണെങ്കിലും തിരിച്ചുവരവ് ലാഭവും വളരെ ഉയർന്നതായിരിക്കും എന്നാൽ അപകടസാധ്യത കുറവുള്ള ചില പ്രോജക്ടുകൾ എന്നാൽ വരുമാനം വളരെ കുറഞ്ഞതുമായത് അവ വളരെ കുറഞ്ഞ ലാഭം നൽകും അതിനാൽ ഈ വ്യത്യസ്ത തരം പ്രോജക്ടുകൾക്കിടയിൽ നമ്മൾ ബാലൻസ് ചെയ്യണം ഇത് ചെയ്യാൻ കഴിയും അതിനർത്ഥം ചില ഒപ്റ്റിമൈസേഷനായി നമ്മൾ പോകേണ്ടതുണ്ട് പ്രോജക്റ്റുകൾ അപകടസാധ്യതയുള്ളതാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ കൂടുതൽ ലാഭമുണ്ടാക്കാം കുറഞ്ഞ ചെലവ് എങ്ങനെ ചെലവഴിക്കാം പക്ഷേ ലക്ഷ്യം ലാഭം വർദ്ധിപ്പിക്കുന്നതിന് അതിനാൽ ഈ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ വഴി ഇവ നേടാനാകും ഇനി പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഈ ഗുണദോഷങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കാം പോർട്ട്ഫോളിയോയ്ക്ക് പുറത്ത് ചില ചെറിയ അഡ്ഹോക് ജോലികൾ ചെയ്യാൻ ഇത് അനുവദിക്കുന്നു എന്നതാണ് നേട്ടം ഇവയാണ് പ്രോജക്ട് പോർട്ട്ഫോളിയോ മാനേജുമെന്റ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേഗത്തിൽ താൽപ്പര്യപ്പെടാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന സിസ്റ്റങ്ങളിലേക്ക് ദ്രുതഗതിയിലുള്ള പരിഹാരങ്ങൾ എന്തുചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതേസമയം നിങ്ങൾ കുറച്ച് മുഴുവൻ സമയ സ്റ്റാഫുകൾ എടുത്തിരിക്കാനിടയുള്ള പോരായ്മകൾ ചില ഫുൾടൈം സ്റ്റാഫുകൾ അനുവദിച്ചിരിക്കാം ഫലപ്രദമായി അവരെക്കുറിച്ചുള്ള ഒരു പ്രോജക്റ്റിനായി അവ പാർട്ട് ടൈം ആയി കണക്കാക്കും ഫലപ്രദമായി പാർട്ട് ടൈം അടിസ്ഥാനമുണ്ടാകും കാരണം ഇനിയും ചില പതിവ് ജോലികൾ ചെയ്യാനുണ്ട് നിയുക്ത പ്രോജക്റ്റുകൾക്കായി നമുക്ക് മുഴുവൻ സമയവും നൽകാൻ കഴിയില്ല അതിനാൽ അത് ഒരു പരിമിതിയാണ് ചില പ്രോജക്റ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ ഓർഗനൈസേഷണൽ പ്രവർത്തനത്തെ കൃത്യമായി പ്രതിഫലിപ്പിച്ചേക്കില്ല നിങ്ങൾ തയ്യാറാക്കിയ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ റിപ്പോർട്ടിൽ ചില പ്രോജക്റ്റുകൾ ഒഴിവാക്കിയാൽ അത് സംഘടനാ പ്രവർത്തനങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിച്ചേക്കില്ല അതിനാൽ പ്രോജക്റ്റ് പോർട്ട്ഫോളിയോ മാനേജുമെന്റിന്റെ ഗുണദോഷങ്ങൾ ഇവയാണ് ഇനി വ്യക്തിഗത പ്രോജക്റ്റുകൾ എങ്ങനെ വിലയിരുത്താമെന്ന് നോക്കാം വ്യക്തിഗത പ്രോജക്റ്റുകൾ വിലയിരുത്തുന്നതിന് മൂന്ന് തരം സാധ്യതാ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ സാങ്കേതിക സാധ്യത പിന്നെ സാമ്പത്തിക സാധ്യത പ്രവർത്തന സാധ്യത എന്നിവയാണ് ആദ്യം ഈ സാങ്കേതിക വിലയിരുത്തലിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനാൽ നിലവിലെ താങ്ങാനാവുന്ന സാങ്കേതികവിദ്യകളിലൂടെ ആവശ്യമായ പ്രവർത്തനം നേടാൻ കഴിയുമോ എന്ന് വിലയിരുത്തുന്നതാണ് സാങ്കേതിക വിലയിരുത്തലിൽ നിലവിൽ വിപണിയിൽ നിലവിലുള്ള സാങ്കേതികവിദ്യകൾ അതിലൂടെ നിങ്ങൾക്ക് പ്രോജക്റ്റ് വികസിപ്പിക്കാൻ കഴിയും അത് സാങ്കേതികമായി പ്രായോഗികമാണെന്നും സാങ്കേതിക വിലയിരുത്തൽ തികച്ചും നിറവേറ്റിയെന്നും നമ്മൾ പറയുന്നു അതിനാൽ സമാനമായി സാങ്കേതികവിദ്യയുടെ വില നിങ്ങൾ ഒരു പുതിയ സാങ്കേതികവിദ്യ പുതിയ ഹാർഡ്വെയർ പുതിയ സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തിക മൂല്യനിർണ്ണയത്തിൽ കണക്കിലെടുക്കേണ്ട സാങ്കേതികവിദ്യയുടെ വില കണക്കിലെടുക്കണം നിങ്ങൾ കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനം തയ്യാറാക്കുന്ന ആളുകൾ ആയിരിക്കുമ്പോൾ ഈ ചെലവ് കണക്കിലെടുക്കേണ്ട പുതിയ ഹാർഡ്വെയർ പുതിയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പുതിയ സാങ്കേതികവിദ്യ എന്നിവയുടെ വില നിങ്ങൾ പരിഗണിക്കണം അപ്പോൾ ഇത് സാമ്പത്തിക വിലയിരുത്തലാണോ സാമ്പത്തിക വിലയിരുത്തലിൽ ചെലവും ആനുകൂല്യങ്ങളും വിശകലനം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽത്തന്നെ ഇതിനെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് വിളിക്കുന്നു ചെലവഴിക്കുന്ന വിവിധ ചെലവുകൾ നമ്മൾ വിശകലനം ചെയ്യണം ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ വിശകലനം ചെയ്യണം പിന്നെ ആനുകൂല്യങ്ങൾ ചെലവ് കവിയുന്നുണ്ടോ ഇല്ലയോ എന്നത് ആനുകൂല്യത്തെ ചെലവിനേക്കാൾ കൂടുതലാണോ എന്ന് താരതമ്യം ചെയ്യണം വികസന അംഗീകാരത്തിനായി നമ്മൾ പദ്ധതി ഏറ്റെടുക്കും വികസനത്തിനായി നാം ആ പദ്ധതി ഏറ്റെടുക്കരുത് ഈ സാമ്പത്തിക വിലയിരുത്തൽ അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നറിയപ്പെടുന്നത് ഒരു വ്യക്തിഗത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തിഗത പ്രോജക്റ്റുകൾക്കായി നിങ്ങൾ കോസ്റ്റ്ബെനെഫിറ്റ് അനാല്യ്സിസ് നടത്തണം കോസ്റ്റ്ബെനെഫിറ്റ് അനാല്യ്സിസിനായി നിങ്ങൾ ആദ്യം ഇനിപ്പറയുന്നവ ചെയ്യേണ്ടതുണ്ട് എല്ലാ ചെലവും നിങ്ങൾ തിരിച്ചറിയണം വ്യത്യസ്ത തരം ചിലവുകൾ എന്താണെന്ന് തിരിച്ചറിയണം ഉദാഹരണത്തിന് ചിലവ് വികസനച്ചെലവ് ആയിരിക്കും ചിലവ് സജ്ജീകരണ ചെലവ് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് റിക്രൂട്ട്മെന്റിനായുള്ള ഹാർഡ്വെയർ ചെലവും ഇത് സജ്ജീകരിക്കുന്നതിനുള്ള സ്റ്റാഫ് പരിശീലന ചെലവും എന്ത് പരീക്ഷണാത്മകമാണ് അതിനാൽ ഹാർഡ്വെയറിന്റെ ക്രമീകരണം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിന് ആവശ്യമായ വ്യക്തിഗത റിക്രൂട്ടിംഗ് എന്നിവ സംബന്ധിച്ച് എന്ത് വില ആവശ്യമാണ് അതിനാൽ ഈ ചെലവ് സജ്ജീകരണ ചെലവായി അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ചിലവ് പ്രവർത്തനച്ചെലവ് പോലെയാകാം അതിനാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള ചിലവിന് ശേഷം ഇൻസ്റ്റാളേഷന് ശേഷം ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് നമ്മൾ ചിലവ് നൽകേണ്ടിവരും അതിനാൽ ഇവ പ്രവർത്തനച്ചെലവാണ് ഇതിൽ കോസ്റ്റ് ബെനെഫിറ്റ് അനാല്യ്സിസ് നടത്തുന്നതിനുള്ള മാർഗ്ഗം വ്യത്യസ്ത തരം ചെലവ് നമ്മൾ തിരിച്ചറിയണം വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ സമാനമായി തിരിച്ചറിയേണ്ടതുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും വിലയുടെ വർഗ്ഗീകരണവും ആനുകൂല്യങ്ങളുടെ വർഗ്ഗീകരണവുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ക്ലാസിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യും ആനുകൂല്യങ്ങൾ വിലയേക്കാൾ വലുതാണെന്ന് പരിശോധിക്കുക പെർഫോമൻസ് കോസ്റ്റ് ബെനെഫിറ്റ് അനാല്യ്സിസ് എവിടെയാണെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ വികസനത്തിനായി നമുക്ക് പദ്ധതി ഏറ്റെടുക്കാം അല്ലാത്തപക്ഷം വികസനത്തിനായി പദ്ധതി ഏറ്റെടുക്കരുത് കോസ്റ്റ് ബെനെഫിറ്റ് അനാല്യ്സിസ്സിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണ് അതിനാൽ ആനുകൂല്യങ്ങൾ ഇതിനേക്കാൾ വലുതാണോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്